രണ്ട് സീക്വൻസുകൾക്കിടയിൽ പൊതുവായ സബ്വേഡുകളും തുടർന്നുള്ള കണ്ടെത്തലുകളും കണ്ടെത്തുന്നതിലേക്ക് നമുക്ക് തിരിയാം നമ്മൾ നോക്കുന്ന ആദ്യത്തെ പ്രശ്നം ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് പ്രശ്നമാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ രണ്ട് വാക്കുകൾ നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഇംഗ്ലീഷിലോ അതുപോലുള്ള ഒരു ഭാഷയിലോ പോകുന്നുവെന്ന് കരുതുക രണ്ട് സ്ട്രിംഗുകൾ നൽകി അവയ്ക്കിടയിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സബ്വേഡിന്റെ ദൈർഘ്യം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു സബ്വേഡിൽ ഇത് ഒരു സെഗ്മെൻറ് മാത്രമാണ് ഇതുവരെയുള്ള തൽക്ഷണം എനിക്ക് സീക്രെട്ടും സെക്രട്ടറിയും ഉണ്ടെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് പ്രിഫിക്സ് സീക്രെട്റ്റ് മാത്രമാണെങ്കിൽ ഇതിന് ദൈർഘ്യം 6 ഉണ്ട് ബൈസെക്റ്റിനും ട്രൈസെക്റ്റിനും ഇടയിൽ എനിക്ക് ഈ പൊതു സെഗ്മെൻറ് ഐസെക്റ്റ് ഉണ്ട് മറുവശത്ത് ഞാൻ ബൈസെക്ടും സീക്രെട്ടും എടുക്കുകയാണെങ്കിൽ പൊതുവായ സബ്വേഡ് നീളം 3 ആണ് അതായത് സെക്ക് എനിക്ക് ഡയറക്ടറും സെക്രട്ടറിയുമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ രണ്ട് നീളമുള്ള സബ്വേഡുകൾ മാത്രമേ ഉള്ളൂ അവയിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടിലും ec സംഭവിക്കുന്നു അവയിൽ വീണ്ടും അങ്ങനെ തന്നെ അതിനാൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിനായി നമുക്ക് ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റുകൾ ഉണ്ടായിരിക്കാം എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം സബ്വേഡല്ല മറിച്ച് ദൈർഘ്യമാണ് കണക്കാക്കുന്നത് ദൈർഘ്യ കണക്കുകൂട്ടലിൽ നിന്ന് എളുപ്പത്തിൽ ഈ സബ്വേഡ് വീണ്ടെടുക്കുക ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സബ്വേഡിന്റെ ദൈർഘ്യം നേടുക എന്നതാണ് നമുക്ക് ഈ കാര്യം കൂടുതൽ ഔപചാരികമായി നോക്കാം നമുക്ക് a0 മുതൽ am വരെ b0 മുതൽ bn എന്നീ രണ്ട് പദങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ a0 a1 എന്ന് എഴുതിയാൽ ഒരു സ്ഥാനം ai ai പ്ലസ് 1 എന്നിങ്ങനെയുള്ളവ പിന്നെ ഒരു am a i b j എന്നിവയിൽ ആരംഭിക്കുന്ന ചില സെഗ്മെന്റുകൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആരംഭിച്ച് k അക്ഷരങ്ങൾ വായിക്കുന്നുവെങ്കിൽ b j ൽ നിന്ന് ആരംഭിക്കുക k അക്ഷരങ്ങൾ വായിക്കുക k മൈനസ് 1 വരെ a i a i പ്ലസ് 1 i പ്ലസ് k മൈനസ് 1 b j b j പ്ലസ് 1 b j പ്ലസ് k മൈനസ് 1 എന്നിവ ഞാൻ വായിച്ചു അപ്പോൾ ഇവ രണ്ടും k ലൈൻ സെഗ്മെന്റാണ് അവ തുല്യമാണ് അപ്പോൾ ഞാൻ പറയും u v എന്നിവയ്ക്ക് k ന്റെ ഒരു സാധാരണ സബ് വേർഡ് ഉണ്ട് പദത്തിന്റെ പൊരുത്തപ്പെടുന്ന ഒരു ഉപവിഭാഗം ഉണ്ടായിരിക്കണം ഇപ്പോൾ അത്തരം ദൈർഘ്യമേറിയ സെഗ്മെന്റിന്റെ ദൈർഘ്യം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം u w എന്നിവയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് ഇവിടെ ഒരു ബ്രൂട്ട് ഫോഴ്സ് അൽഗോരിതം ഉണ്ട് നിങ്ങൾ എല്ലാ സ്ഥാനങ്ങളും പരീക്ഷിച്ചുനോക്കൂ നിങ്ങൾ ഓരോ a i b j ലും നോക്കുന്നു നിങ്ങൾ ഓരോ i j ഉം i 0 നും m നും ഇടയിൽ j 0 നും n നും ഇടയിൽ നോക്കുന്നു എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഇവ രണ്ടും പൊരുത്തമുണ്ടെങ്കിൽ ഞാൻ അടുത്ത അക്ഷരം നോക്കി മുന്നോട്ട് പോകുന്നു പൊരുത്തപ്പെടാത്ത രണ്ട് സ്ഥാനങ്ങൾ കണ്ടെത്തുന്നതുവരെ ഞാൻ ഇത് തുടരുന്നു ഈ രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സബ്വേഡ് പൊരുത്തക്കേട് മാത്രമാണെന്ന് എനിക്കറിയാം അതിനാൽ ഞാൻ ഒരു ബി ഐ എ പ്ലസ് 1 ബി ഐ പ്ലസ് 1 മായി പൊരുത്തപ്പെടുന്നു സാധ്യമായത്രയും ദൈർഘ്യമേറിയ അത്തരം പൊരുത്തത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കാം ഓരോ എ ഐ ബി ജെ എന്നിവയ്ക്കും ഞാൻ ഇത് ചെയ്യുന്നു എം എൻ നെക്കാൾ വലുതാണെങ്കിൽ ആദ്യം ഒരു a i b j എന്നിവയുടെ ചോയിസുകളുടെ എണ്ണം m തവണ n ആണ് പൊതുവേ എല്ലാം പൊരുത്തപ്പെടുന്ന ഹ്രസ്വ പദത്തിന്റെ അവസാനത്തിന്റെ നീളത്തിലേക്ക് ഞാൻ പോകും ഈ സ്കാനിന്റെ അവസാനം എത്തുന്നതിനുമുമ്പ് എനിക്ക് ഓർഡർ n വാക്ക് ചെയ്യാൻ കഴിയും ഹ്രസ്വമായ വാക്കിന്റെ അവസാനം വരെ എല്ലാം പൊരുത്തപ്പെടുന്നു തുടർന്ന് ഞാൻ ഓർഡർ n വേഡ് ഇടുക ഇത് m തവണ n മുതൽ n അല്ലെങ്കിൽ O m n ചതുരത്തിലേക്ക് O ആയിരിക്കും അതിനാൽ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം പ്രേരണാപരമായ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ഇത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമോയെന്നതാണ് ഇൻഡക്റ്റീവ് നിരീക്ഷണത്തിലെ ആദ്യത്തെ നിരീക്ഷണം എനിക്ക് a i a i പ്ലസ് 1 ഉണ്ടെങ്കിൽ എനിക്ക് b j b j പ്ലസ് 1 ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് k ന്റെ നീളം വരുന്ന ഒരു സബ്വേഡ് ഉണ്ടെങ്കിൽ അടുത്ത സ്ഥാനം നോക്കി മുന്നോട്ട് പോകുക അത് എന്നത് k മൈനസ് 1 ന്റെ ദൈർഘ്യമുള്ള ഒരു സബ്വേഡ് ആയിരിക്കണം അതിനാൽ k മൈനസ് 1 i പ്ലസ് 1 j പ്ലസ് 1 എന്നിവയുടെ ദൈർഘ്യമേറിയ ഒരു സബ്വേഡ് ഉണ്ടെങ്കിൽ മാത്രം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ j യെ നോക്കുന്നു i j തുല്യമാണെങ്കിൽ a i b j എന്നിവയിൽ സാധാരണ സബ് വേർഡിൽ ഒരു വാക്ക് ആരംഭിക്കാൻ കഴിയും അതിനാൽ a i b j യ്ക്ക് തുല്യമാണെങ്കിൽ i പ്ലസ് 1 ജെ പ്ലസ് 1 എന്നിവ വാങ്ങാൻ കഴിയുമായിരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ് വേർഡ് ഞാൻ നോക്കുകയും അതിൽ 1 ചേർക്കുകയും ചെയ്യുന്നു മറുവശത്ത്a i b j യ്ക്ക് തുല്യമല്ലെങ്കിൽ എനിക്ക് ഒരു പൊതു സബ്വേഡ് ചേർക്കാൻ കഴിയില്ല കാരണം ആദ്യം അനുവദിച്ചതുമായി പൊരുത്തപ്പെടുന്നില്ല ആ സ്ഥാനത്ത് നിന്ന് ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിന്റെ ദൈർഘ്യം മാത്രമാണ് അതിനാൽ ഇത് ഇൻഡക്റ്റീവ് ഘടനയെ കൈകാര്യം ചെയ്യുന്നു ഞാൻ രണ്ട് സ്ഥാനങ്ങൾ നോക്കുന്നു തുല്യമല്ലെങ്കിൽ അവിടെ ആരംഭിക്കുന്ന സാധാരണ സബ്വേഡുകളൊന്നുമില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു അവ തുല്യമാണെങ്കിൽ ഞാൻ പ്രശ്നം അടുത്ത സ്ഥാനത്തേക്ക് മാറ്റിവയ്ക്കുകയും അടുത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ഒന്നിലേക്ക് 1 ചേർക്കുകയും ചെയ്യുന്നു ബൌണ്ടറി കണ്ടിഷെനിൽ ഒരു വാക്ക് ശൂന്യമായിരിക്കുമ്പോൾ പിന്നെ നമ്മളെ വിട്ടുപോകാൻ അനുവദിക്കില്ല അതിനാൽ നമുക്ക് ഇനി ഒരു പദവും നീട്ടാൻ കഴിയില്ല നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല തുടർന്ന് ഒരു പൊതു സബ്വേഡ് ഉണ്ടാകാൻ കഴിയില്ലെന്ന് പറയാൻ കഴിയും സാധാരണ സബ്വേഡുകളിലൊന്നിൽ നിന്ന് ഉപയോഗിക്കാൻ അക്ഷരങ്ങളൊന്നുമില്ല സൌകര്യത്തിനായി നമ്മുടെ വാക്കുകൾ 0 മുതൽ m വരെയും b 0 മുതൽ b m വരെയും പോകുന്നുണ്ടെങ്കിലും a m പ്ലസ് ഒന്നാമത്തെ സ്ഥാനവും a n പ്ലസ് ഒന്നാമത്തെ സ്ഥാനവും അനുവദിക്കും അതിനാൽ നമുക്ക് യു വിൽ 0 മുതൽ എം പ്ലസ് 1 വരെയും വിയിൽ 0 മുതൽ എൻ പ്ലസ് 1 വരെയും ഉണ്ടാകും എം പ്ലസ് 1 എന്നാൽ ഞാൻ യു യിലെ അവസാന സ്ഥാനത്തിനപ്പുറം പോയി എല്ലാ അക്ഷരങ്ങളും തീർത്തു അതുപോലെ തന്നെ ബിയിലെ n പ്ലസ് 1 എന്നതിനർത്ഥം v ലെ വാക്കിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് യു എന്ന വാക്കിന്റെ അവസാനത്തിൽ എത്തിയാൽ നമ്മൾ എവിടെയാണെങ്കിലും കോമൺ വാക്കുകളില്ല അതിനാൽ പൊതുവായ സബ്വേഡിന്റെ ദൈർഘ്യം 0 ആണ് അതുപോലെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ v ലെ വാക്കിന്റെ അവസാനം നമ്മൾ എവിടെയായിരുന്നാലും പൊതുവായ ഒരു സബ്വേഡ് നീളം 0 ഇല്ല ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ വാക്കിന്റെ അവസാനത്തിലല്ല a i bj ലേക്ക് തുല്യമാണോ എന്ന് പരിശോധിക്കുന്നു ai bj ന് തുല്യമല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിനൊപ്പം ദൈർഘ്യം 0 ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു ai b j ന് തുല്യമായതിനാൽ ആ വാക്ക് 1 കൊണ്ട് നീട്ടി അതിനായി ഒരു മെമ്മോറായിസെഡ് റികർസിവ് ഫന്ക്ഷേൻ എഴുതാം പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു ഡൈനമിക് പ്രോഗ്രാമിംഗ് പരിഹാരം കണക്കുകൂട്ടാൻ നമ്മൾ നേരിട്ട് ശ്രമിക്കും നമുക്ക് സാധാരണയായി LCW i j എന്ന ഫോമിന്റെ ഈ ഉപ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇവയാണ് അടിസ്ഥാന ഉപ പ്രശ്നം അതിനാൽ മുമ്പത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത് എനിക്ക് bj ന് തുല്യമായ ai ഉണ്ടെങ്കിൽ എനിക്ക് ai plus 1 bj plus 1 നോക്കേണ്ടതുണ്ട് LC IW LCW ij എന്നിവ LCW i plus 1 j plus 1 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ഇത്തരത്തിലുള്ള സബ്പ്രൊബ്ലം ഡിപൻഡൻസിയാണ് ഓരോ ഘട്ടത്തിലും ഒരു മൂല്യം ചുവടെയുള്ളതിലേക്ക് നോക്കേണ്ടതുണ്ട് ഇത് വ്യക്തമാണ് ഇത് i ആണ് ഇത് നമ്മുടെ ജെ ആണ് അതിനാൽ ഇത് താഴേക്ക് നോക്കുകയും എഴുതുകയും വേണം നമ്മൾ അറേകളെ പിന്നിലേക്ക് വരയ്ക്കുന്നു അതായത് ഈ ചതുരം ഈ സ്ക്വയറിനെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു ആരോ വരയ്ക്കുന്നു ഇത് വിപരീതത്തിലെ ആശ്രയത്വത്തെ സൂചിപ്പിക്കുന്നു ഞാൻ ആരോന്റെ അടിഭാഗം കണക്കുകൂട്ടേണ്ടതുണ്ട് ഞാൻ താഴേയ്ക്കുള്ള ആരോലേക്ക് എത്തുന്നതിനുമുമ്പ് അതാണ് ആരോ ഇത് കണക്കാക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് കണക്കുകൂട്ടേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഈ കോണിൽ ആരംഭിക്കാം കാരണം ഇത് ഒന്നിനെയും ആശ്രയിച്ചിട്ടില്ല തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുക അതിർത്തിയിൽ നമ്മൾ കണ്ടതുപോലെ അവിടെ ഞാൻ ഒരു വാക്ക് തീർത്തു അവിടെ ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്ക് നമ്മൾ ഈ വാക്ക് രണ്ടായി തിരിച്ച് രഹസ്യമാക്കി a i b j എന്നിവയുടെ മൂല്യങ്ങൾ എന്താണെന്ന് പറയുക ഇവ a I യുടെ മൂല്യങ്ങളാണ് ഇവ b j യുടെ മൂല്യങ്ങളാണ് അതിനാൽ ഇവ എന്റെ രണ്ട് പദങ്ങളാണ് തുടക്കത്തിൽ അതിർത്തിയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് 0 ആണ് കാരണം രണ്ട് പദങ്ങളിൽ ഒന്ന് ശൂന്യമാണ് ഇപ്പോൾ എനിക്ക് വരി വരിയോ നിരയോ നിരയോ എന്ന് പറയാൻ കഴിയും അതിനാൽ ഒരു മാറ്റത്തിനായി നമുക്ക് അത് നിര പ്രകാരം ചെയ്യാം ഇപ്പോൾ a 5 ബി 5 ന് തുല്യമാണെന്ന് ഉണ്ടായിരുന്നു നമുക്ക് 6 6 ന്റെ 1 പ്ലസ് എൽസിഡബ്ല്യു ലഭിക്കുന്നു അതിനാൽ നമുക്ക് 1 ലഭിക്കുന്നു മറ്റെല്ലായിടത്തും സി ടി ഇ ടി എന്നിവ പിന്നെ ടി മറ്റെല്ലായിടത്തും ഇത് വെറും 0 ആണ് കാരണം മൂല്യം പൊരുത്തപ്പെടുന്നില്ല ഞാൻ ഇപ്പോൾ മുമ്പത്തേതിലേക്കോ നിരയിലേക്കോ പോയാൽ ഇവിടെ എന്തും പറയാനുള്ളത് ഇ ഇ എന്നിവയാണ് പക്ഷേ അവിടെ അടുത്തത് 0 ആയതിനാൽ എനിക്ക് 1 പ്ലസ് 0 ലഭിക്കുന്നത് 1 ആണ് ഞാൻ മുമ്പത്തേതിലേക്ക് പോയാൽ വാസ്തവത്തിൽ മൂല്യം ഇല്ല ബൈസെക്റ്റിൽ r ഇല്ല അതിനാൽ എല്ലാ മൂല്യങ്ങളും സബ്വേഡ് 0 ആണ് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് സി സി പൊരുത്തം ഉണ്ട് അതിനാൽ ഇവിടെ ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സബ്വേഡ് 1 പ്ലസ് t ഉം r ഉം അത് സംഭവിക്കുന്നതെന്തുംആണ് പക്ഷേ t ഉം r ഉം 1 പ്ലസ് 0 ഉം മറ്റും പൊരുത്തപ്പെടുന്നില്ല പക്ഷേ ഇപ്പോൾ c ക്ക് മുൻപുണ്ടാകുക ഒരു e ആണ് ഈ e യിൽ ഇത് അടിയിൽ സംഭവിക്കുന്നതെന്തും 1 പ്ലസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഇത് 1 പ്ലസ് 1 2 ഉം അതുപോലെ തന്നെ s ലും s ഉം s ഉം പൊരുത്തപ്പെടുന്നതായി ഞാൻ കണ്ടെത്തി അത് 1 പ്ലസ് മറ്റെന്തെങ്കിലും ആണെങ്കിൽ ചുവടെ വലത് 3 ആയി മാറുന്നു അതിനാൽ നമ്മൾ ഈ വഴി തിരിച്ചറിയുന്നു ഒരു എൻട്രി 3 ഇടുന്നു അതിനാൽ ഈ പ്രത്യേക ടേബിളിൽ ഉത്തരം എവിടെ ആണെന്ന് അൽപ്പം നിഗൂഡമാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ മൂല്യമുള്ള എൻട്രി കണ്ടെത്തുക എന്നതാണ് ഈ സാഹചര്യത്തിൽ 2 കോമ 0 ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മൂല്യം ഈ രണ്ട് പദങ്ങൾക്കിടയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിന് ദൈർഘ്യം 3 ഉണ്ടെന്ന് ഇത് നമ്മോട് പറയുന്നു നമുക്ക് യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയും ഇവിടെ നീളമുള്ള 3 ദൈർഘ്യമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഒരു സബ്വേഡ് ഉണ്ടെന്ന് നമ്മുക്കറിയാം അതിനർത്ഥം ദൈർഘ്യം 2 എന്ന വാക്ക് ഉപയോഗിച്ച് ഇത് പിന്തുടരണം ഈ പ്രത്യേക ഡയഗണൽ ഈ വാക്കിലെ അക്ഷരങ്ങൾ എന്താണെന്ന് നമ്മളോട് പറയുന്നു ഈ ഡയഗണലിനെ ഒരു നിരയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് cc യിൽ ഉള്ള വാക്ക് കിട്ടും അതിനാൽ ഈ ഉദാഹരണത്തിൽ നമ്മൾ ദൈർഘ്യം കണക്കാക്കിയാൽ ഈ പരിഹാരം വായിക്കുന്നത് വളരെ എളുപ്പമാണ് ഈ പ്രത്യേക അൽഗോരിതം ഡൈനാമിക് പ്രോഗ്രാമിംഗ് പതിപ്പിനായുള്ള ചില കോഡ് ഇതാ ആശയക്കുഴപ്പം കുറയ്ക്കുന്നതിന് i j എന്നിവയ്ക്ക് പകരം r c എന്നീ വേരിയബിളുകൾ ഞാൻ വ്യക്തമായി ഉപയോഗിച്ചു അതിനാൽ r എന്നത് റോ ആണ് ഇത് ഈ വഴിയും c ഈ വഴിയും പോകുന്നു നമ്മൾ പറയുന്നത് തുടക്കത്തിൽ ആണെങ്കിൽ ഞാൻ അവസാന നിരയിലേക്ക് നോക്കുകയാണ് ഇവയെല്ലാം 0 ആണ് നിങ്ങൾ താഴത്തെ റോയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്പറിംഗ് 0 മുതൽ n പ്ലസ് 1 വരെയും 0 മുതൽ m പ്ലസ് 1 വരെയുമാണെന്ന് ഓർമ്മിക്കുക നമ്മൾ താഴത്തെ റോയിലേക്ക് നോക്കുന്നു റോ നമ്പർ n പ്ലസ് 1 ആകുമ്പോൾ ഓരോ നിരയും 0 ആണ് അതിനാൽ ഇത് 0 ഇടുന്നു ഈ രണ്ട് റോകളും കാര്യങ്ങൾ ജനകീയമാക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അവസാനം ഉത്തരം നൽകുന്നതിന് മുഴുവൻ അറേയിലും പരമാവധി സ്ഥാനം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് ഓർമ്മിക്കുക ഇവിടെയുള്ള മൂല്യം ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്നു ദൈർഘ്യം 0 ന്റെ പരമാവധി പൊതുവായ സബ്വേഡ് ആണെന്ന് നമ്മൾ ആദ്യം അനുമാനിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിരയിലൂടെയും റോയിലൂടെയും പോകുന്നു നമ്മൾ ഓരോ നിരയിലേക്കും n മുതൽ 0 വരെ പോകുന്നു നമ്മൾ നിരയും അനുസരിച്ച് നിര ചെയ്യുന്നു നമ്മൾ റോയിൽ താഴേ നിന്ന് മുകളിലേക്ക് m മുതൽ 0 വരെ നമ്മൾ സ്ഥാനം r എന്ന പദവും c സ്ഥാനം u വും r ബി സി എന്നിവയ്ക്ക് തുല്യവുമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ 1 ചേർക്കുന്നു എൽസിഡബ്ല്യു ആയിരിക്കണം അതിനാൽ എനിക്ക് a ബാർ സി യുടെ d ന് തുല്യമാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് r c 1 കൂടാതെ r പ്ലസ് 1 c പ്ലസ് 1 ചേർക്കുക അല്ലാത്തപക്ഷം 0 ആണെങ്കിൽ പൊതുവായ ഒരു വാക്കും ഇല്ലാത്തതും കണക്കുകൂട്ടലിന്റെ പുതിയ മൂല്യം ഇതുവരെ കണ്ട മൂല്യത്തേക്കാൾ വലുതാണെങ്കിൽ ഞാൻ നിലവിലെ മൂല്യത്തിലേക്ക് അപ്ഡേറ്റുചെയ്യും അവസാനം ഇത് അവസാനിക്കുന്ന ദൈർഘ്യം നൽകുന്നു നിരയെ അടിസ്ഥാനമാക്കി ഈ കാര്യം നിര പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു നേർവേയുള്ള ആവർത്തന മാർഗമാണിത് നിങ്ങൾക്ക് ഈ രണ്ട് ഇൻഡ്യൂസുകളും വിപരീതമാക്കാനും വരിവരിയാക്കാനും കഴിയും അതിനാൽ ഇത് ഒരു വ്യായാമമാണ് നമ്മൾ ഓരോ സ്ഥാനത്തും അന്ധമായി നോക്കുകയും ആ സ്ഥാനം ആരംഭിക്കുന്ന പദം സ്കാൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് m n സ്ക്വയർ എന്ന ക്രമം ലഭിക്കുന്നു ഇപ്പോൾ m തവണ n വലുപ്പത്തിന്റെ ടേബിൾ പൂരിപ്പിക്കാൻ ആവശ്യമുള്ളപ്പോൾ ഈ പരിഹാരം വ്യക്തമായും m തവണ n ടേബിളിലെ എല്ലാ എൻട്രികളും അത് പൂരിപ്പിക്കുന്നതിന് ഒരു അയൽക്കാരനെ നോക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു സ്ഥിരമായ സമയ പ്രവർത്തനമാണ് m തവണ n എൻട്രികൾ അത് m തവണ n തവണ പൂരിപ്പിക്കുന്നു നമുക്ക് ഒരു ഓർഡർ n 1 m n ഉണ്ട് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു പക്ഷേ മെമ്മോയിസേഷനും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ ഉത്തരം ലഭിക്കും എല്ലാം ഓർമിക്കുക ഒരു ആവർത്തന കോൾ നിങ്ങൾക്കും യഥാർത്ഥ നടപ്പാക്കൽ സമയത്തിനും നിബന്ധനകൾ ഉണ്ട് കമ്പ്യൂട്ടർപരമായി കൂടുതൽ താൽപ്പര്യമുണർത്തുന്ന ഒന്നിന്റെ ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിനേക്കാൾ അല്പം കൂടുതൽ പൊതുവായ പ്രശ്നം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും കൃത്യമായ പൊരുത്തത്തിനായി നമ്മൾ അന്വേഷിക്കുന്നില്ലെങ്കിൽ എന്തുചെയ്യും പക്ഷേ ചില അക്ഷരങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മള് സ്വയം അനുവദിക്കുന്നു നമുക്ക് ഒരു സബ്വേർഡ് അല്ല ഒരു തുടർച്ചയുണ്ട് ഇത് ചില അക്ഷരങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മളെ അനുവദിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചില അക്ഷരങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൊരുത്തം ഏതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ ഉദാഹരണം അവയിൽ ചിലത് ഒന്നുതന്നെയാണ് ഈ കേസിൽ എനിക്ക് ഒരു അക്ഷരവും നൽകാതെ 6 നേടാൻ കഴിയും എനിക്ക് അത് മെച്ചപ്പെടുത്താൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ വിഭജിക്കും എനിക്ക് അത് മെച്ചപ്പെടുത്താൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ബൈസെക്ടും സീക്രെട്ടും നോക്കുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ഒരു നീളം 3 മാച്ച് സെക്ക് സെക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് 4 നീളം പൊരുത്തപ്പെടുത്താൻ കഴിയും കാരണം ഇവിടെ ഇത് ടി ചേർത്താൽ ഇവിടെ എനിക്ക് രണ്ട് അക്ഷരങ്ങൾ ഉപേക്ഷിച്ച് അത് നേടാനാകും ടി അതിനാൽ എനിക്ക് യഥാർത്ഥത്തിൽ 4 നീളമുള്ള ഒരു പൊരുത്തം നേടാൻ കഴിയും അതുപോലെ തന്നെ ഈ രണ്ട് ഡിറെക്ടറും സെക്രട്ടറിയിലും മുമ്പ് ec ec ഉം re re ഉം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിഷയം ചെയ്യുന്നതിലൂടെ എനിക്ക് ectr ലഭിക്കും get ectr പോലെ അതുപോലെ തന്നെ എനിക്ക് retr നേടാം എനിക്ക് retr ലഭിക്കും അതിനാൽ പൊരുത്തപ്പെടുന്ന ദൈർഘ്യമേറിയ സീക്വൻസുകൾ ലഭിക്കുന്നതിനാൽ അക്ഷരമെഴുതാൻ നമ്മൾ സ്വയം അനുവദിക്കുകയാണെങ്കിൽ ഇതിനെ ഏറ്റവും ദൈർഘ്യമേറിയ സാധാരണ തുടർച്ച എന്ന് വിളിക്കുന്നു നമ്മുടെ മുമ്പത്തെ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒന്ന് ഞാൻ ചില സെഗ്മെന്റുമായി പൊരുത്തപ്പെടുന്നെങ്കിൽ എനിക്ക് വലതുവശത്ത് പൊരുത്തപ്പെടുന്നത് തുടരാം രണ്ട് സൂചികകളും മുന്നോട്ട് പോകാൻ എനിക്ക് അനുവദിക്കാം എനിക്ക് താഴേയ്ക്കും വലത്തേക്കും ഗ്രിഡിലേക്ക് പോയി ഒരു പൊരുത്തമുള്ള മറ്റൊരു സ്ഥലത്ത് തിരയാൻ കഴിയും നേരത്തെ നമുക്ക് ഒരു സെക്കൻഡ് തമ്മിൽ മൂന്ന് ലെവൽ മത്സരം ഉണ്ടായിരുന്നു തുടർന്ന് d ന് ഇടയിൽ ഒരു ലെവൽ മത്സരം ചേർക്കുന്നു ഇവ രണ്ടും നാല് ലെവൽ ദൈർഘ്യമേറിയ പൊതുവായ തുടർന്നപോലെ സംയോജിപ്പിക്കാൻ കഴിയും പക്ഷേ നമ്മൾ തുടർന്നുള്ള കണക്കുകൂട്ടൽ കൂടുതൽ നേരിട്ടുള്ള വഴിയിൽ തന്നെ ചെയ്യും തുടരുന്നതിനുമുമ്പ് ഏറ്റവും ദൈർഘ്യമേറിയ തുടർന്നുള്ള പ്രശ്നം രസകരമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കുന്നത് ഉപയോഗപ്രദമാണ് പ്രദേശങ്ങളിലൊന്ന് ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് ജനിതക അർത്ഥത്തിൽ രണ്ട് ജീവിവർഗ്ഗങ്ങൾ പരസ്പരം എത്ര അടുപ്പമുള്ളതാണെന്ന് തിരിച്ചറിയാൻ ബയോളജിസ്റ്റിന് താൽപ്പര്യമുണ്ട് അതിനാൽ ഡിഎൻഎ ആണെങ്കിൽ നമ്മുടെ ഡിഎൻഎ അടിസ്ഥാനപരമായി വലിപ്പമുള്ള 4 അക്ഷരമാലയ്ക്ക് മുകളിലുള്ള നീളമുള്ള ഒരു സ്ട്രിംഗാണ് ഇവ 4 പ്രോട്ടീനുകളാണ് ഇത് ഒരു ഡിഎൻഎയായി മാറുന്നു ചുരുക്കത്തിൽ എ ട്ടി ജി സി ഇപ്പോൾ ഡിഎൻഎയുടെ രണ്ട് സ്ട്രിംഗുകളും താരതമ്യപ്പെടുത്താനുള്ള സ്വാഭാവിക വഴിയും നോക്കിയാൽ അവ എത്രമാത്രം വിന്യസിച്ചു എത്ര നന്നായി വിന്യസിച്ച സവിശേഷതകൾ ഇവിടെയും അവിടെയും കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിച്ചു അവ പരസ്പരം എത്ര അടുപ്പമുള്ളതാണെന്ന് ചോദിക്കുക എന്നതാണ് ഇത് ഒരു ജീവി ആയിരിക്കാം കൂടാതെ കുറച്ച് അധിക ജീനുകളും മറ്റ് ചില ഇനങ്ങളും മറ്റെന്തെങ്കിലും അധിക ജീനുകളാകാം ആ ജീനുകൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എല്ലാം തുല്യമാണ് പക്ഷേ ഈ ജീനുകൾ സംഭവിക്കാം ഇത് രണ്ട് സ്പീഷിസുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളാണ് ഒരു പൊതുഭാഗമുണ്ടെന്നോ അതിനുശേഷം ഒരു അധിക ഭാഗമുണ്ട് എന്നോ അല്ല പുതിയ ജീനുകൾ മറ്റ് ജീനുകൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്നിൽ കുറച്ച് ജീനുകളും മറ്റൊന്നിൽ കുറച്ച് ജീനുകളും ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഓവർലാപ് ചെയ്യും അതിനാൽ ഏറ്റവും ദൈർഘ്യമേറിയ തുടർന്നുള്ള പ്രശ്നമാണിത് നിങ്ങൾ യുണിക്സ് അല്ലെങ്കിൽ ലിനക്സ് ഏതെങ്കിലും അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെങ്കിൽ ഒരു കമാൻഡ് കോഡ് ഡിഐഎഫ്എഫ് ഉണ്ട് ഇത് രണ്ട് ടെക്സ്റ്റ് ഫയലുകൾ ഒന്നുതന്നെയാണോ അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ വ്യത്യാസം കണ്ടെത്താൻ നിങ്ങളെ അനുവദിക്കുന്നു ഡിഐഎഫ്എഫ് കമാൻഡ് ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയും ചെയ്യുന്നു അത് ഓരോ വരികളിലും ഒരു പ്രതീകമായി എത്തുന്നു കൂടാതെ ഇത് പറയുന്നു ഏറ്റവും കുറഞ്ഞ വരികളുടെ എണ്ണം എന്താണ് ഇവയ്ക്കിടയിൽ എനിക്ക് രണ്ട് ഫയലുകൾ ഡ്രോപ്പ് ചെയ്യാൻ കഴിയും 4 എനിക്ക് അവയുമായി പൊരുത്തപ്പെടാൻ കഴിയും തുടർന്ന് കാര്യങ്ങൾ എങ്ങനെ തിരികെ ചേർക്കാമെന്ന് ഇത് നിങ്ങളോട് പറയും പക്ഷേ അടിസ്ഥാനപരമായി രണ്ട് ടെക്സ്റ്റ് ഫയലുകൾ പരസ്പരം എത്രത്തോളം അടുത്തുവെന്ന് നിങ്ങളോട് പറയാൻ ഏറ്റവും ദൈർഘ്യമേറിയ തുടർന്നുള്ള കണക്കുകൂട്ടൽ നടത്തുന്നു അതിനാൽ ഏറ്റവും ദൈർഘ്യമേറിയ ഈ തുടർന്നുള്ള പ്രശ്നത്തിന് ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർന്നുള്ള പ്രശ്നത്തിന്റെ ഇൻഡക്റ്റീവ് ഘടന നേരിട്ട് മനസിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് എറിയരുത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ടിനുമിടയിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിനായി ഞാൻ തിരയുകയാണെങ്കിൽ a 0 വാസ്തവത്തിൽ b 0 ന് തുല്യമാണെന്ന് ഞാൻ കരുതുന്നുവെന്ന് കരുതുക ഇപ്പോൾ ഞാൻ അവയെ പരിഹാരത്തിൽ സംയോജിപ്പിക്കണം എന്നിട്ട് ബാക്കിയുള്ളവയിൽ ഒരു പരിഹാരം നോക്കുക ഞാൻ എന്തെങ്കിലും ചെയ്യണം അവിടെ ബി 0 ന് തുല്യമായ ഒരു പൊരുത്തമുണ്ടെന്ന് ഞാൻ പറയുന്നു തുടർന്ന് ഞാൻ ടേബിൾ കണ്ടെത്തണം ഇതിന് അൽപ്പം ആർഗ്യുമെന്റ് ആവശ്യമാണ് കാരണം ഇത് ഒപ്റ്റിമo അല്ലെന്ന് വരാം അതിനാൽ ഇത് ഗ്രീടി പോലെയാണെന്ന് ഓർമ്മിക്കുക നമ്മൾ അത് പറയുന്നതിനു കാരണം b 0 ന് തുല്യമായ 0 അതിനെ പൊരുത്തപ്പെടുത്തുന്നു ഇനി തുടരുക ഒരാൾ വാദിച്ചേക്കാം ഇത് ഒരു വഴിയല്ല എനിക്ക് പോകണം a 0 എന്ന് കരുതുക വാസ്തവത്തിൽ ബി 2 മായി പൊരുത്തപ്പെടണം അതാണ് മികച്ച പരിഹാരം അതിനാൽ a 0 നെ b 0 ആയി പൊരുത്തപ്പെടുത്തുന്നത് നല്ല ആശയമല്ല പക്ഷേ ഇപ്പോൾ 0 എന്നത് b 2 മായി പൊരുത്തപ്പെടുന്നെങ്കിൽ അത് തുടർന്നുള്ളതാണെന്നത് ശ്രദ്ധിക്കുക അതിനുശേഷം എഴുതുന്ന എന്തും 1 എന്നത് എന്തെങ്കിലുമൊക്കെ പൊരുത്തപ്പെടണം എന്ന് പറയുക കൂടുതൽ വലതുവശത്ത് ഈ വരികൾ ഇതുപോലുള്ള ഏത് പ്രക്രിയയും എനിക്ക് ഉണ്ടാകാൻ കഴിയില്ല എനിക്ക് പ്രക്രിയയുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല കാരണം അവ ഒരേ ശ്രേണിയിൽ സംഭവിക്കണം അതിനാൽ a 0 ന് b 2 മാച്ച് ആകുമെങ്കിൽ a 1 എന്തെങ്കിലും വലതുവശത്ത് പൊരുത്തപ്പെടുന്നുവെങ്കിൽ a 2 വലതുവശത്ത് ഇപ്പോഴും പൊരുത്തപ്പെടണം അതിനാൽ ഈ പൊരുത്തങ്ങളെല്ലാം പരസ്പരം പ്രോസസ്സ് ചെയ്യാതെ മുകളിൽ നിന്ന് താഴത്തെ പദത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ഞാൻ ഈ പരിഹാരം എടുക്കുകയും a 0 ബി 0 എന്നിവ അറിയുകയും ചെയ്താൽ എനിക്ക് യഥാർത്ഥത്തിൽ ഈ ആരോ ഇവിടെ നീക്കി ഇതുപോലെയുള്ള പൊരുത്തമുണ്ടാക്കുകയും ഇത് നീക്കംചെയ്യുകയും ചെയ്യാം ഇത് എന്തുചെയ്യും ഇത് യഥാർത്ഥ പരിഹാരത്തെ ദീർഘനേരം ഉപയോഗിക്കാതെ a 0 പൊരുത്തം a b 2 തടസ്സപ്പെടുത്തുന്നു പക്ഷേ a 0 മുതൽ b 0 വരെ പൊരുത്തപ്പെടുന്നു പക്ഷേ പരിഹാരത്തിന്റെ ഗുണനിലവാരം കണക്കിലെടുക്കുമ്പോൾ ഇതുപോലുള്ള പൊരുത്തങ്ങളുടെ എണ്ണം മുമ്പ് a 0 മറ്റെവിടെയെങ്കിലും പൊരുത്തപ്പെടുന്നു ഇപ്പോൾ ഇത് ബി 0 മായി പൊരുത്തപ്പെടുന്നു ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയുടെ ദൈർഘ്യം മാറില്ല അതിനാൽ ആർഗ്യുമെൻറുകൾ പിന്നിലേക്ക് തിരിക്കുന്നതിലൂടെ അത് a 0 ബി 0 ന് തുല്യമാണെങ്കിൽ a 0 ബി 0 രൂപങ്ങൾ പരിഹാരത്തിന്റെ ഭാഗമാവുകയും ബാക്കി പ്രശ്നത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുവെന്ന് കരുതുന്നത് വളരെ സുരക്ഷിതമാണെന്ന് അത് പറയുന്നു അതിനാൽ ഇതാണ് ആദ്യത്തെ കേസ് അത് പറയുന്നു നമുക്ക് a 0 b 0 ന് തുല്യമാണെങ്കിൽ നമുക്ക് a 1 മുതൽ b 1 വരെ ഉള്ള സബ് പ്രോബ്ലം നോക്കാം ഇപ്പോൾ അത് തുല്യമല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരാൾക്ക് ഉറപ്പില്ല രണ്ടും ഉപേക്ഷിക്കുകയെന്നത് ശരിയായ ആശയമല്ല അതിനാൽ എനിക്ക് വൈക്കോലും വഴിതെറ്റിയതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് തൽക്ഷണം കരുതുക അപ്പോൾ എസ് ഒരു എയുമായി പൊരുത്തപ്പെടാത്തതിനാൽ അവ രണ്ടിലും ഞാൻ ചെയ്യണമെന്ന് അർത്ഥമാക്കുന്നില്ല അടുത്ത എസ് മായി പൊരുത്തപ്പെടുന്നതിന് ഞാൻ ആ എസ് ജീവനോടെ നിലനിർത്തണം രണ്ടും അവിടെ ഉണ്ടാകാൻ പാടില്ല കാരണം അവ പരസ്പരം ഉണ്ടാകില്ല ഒപ്പം എസ് വലതുവശത്ത് എന്തെങ്കിലും പൊരുത്തപ്പെടുത്തുകയും അതിനുള്ള ഒന്നായി പൊരുത്തപ്പെടാൻ കഴിയില്ല അവ രണ്ടും വ്യത്യസ്തമാണെങ്കിൽ അവർ തുല്യരല്ലെങ്കിൽ ഇത് അവിടെ എന്തെങ്കിലും പൊരുത്തപ്പെടണം ഇത് ഇവിടെ എന്തെങ്കിലും പൊരുത്തപ്പെടണം രണ്ടും സംഭവിക്കാൻ കഴിയില്ല കാരണം അവർ പരസ്പരം കടന്നു പോകുന്നു ഇത് അനുവദനീയമല്ലെന്ന് നമ്മൾ പറഞ്ഞു അവരിൽ ഒരാൾക്ക് മാത്രമേ മറ്റൊരു വാക്കിൽ വലതുവശത്ത് എന്തെങ്കിലും പൊരുത്തപ്പെടുത്താൻ കഴിയൂ എന്നാൽ ഏതാണ് എന്ന് നമുക്ക് അറിയില്ല അതിനാൽ ഈ ഇൻഡക്റ്റീവ് സൊല്യൂഷനുകളുടെ പൊതുവായ തത്വം ഒന്നോ മറ്റൊന്നോ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ എഴുതുന്നില്ല എന്നതാണ് ഞാൻ b 0 ഉപേക്ഷിച്ച് a 0 ഡ്രോപ്പ് ചെയ്താൽ എനിക്ക് ഒരു പരിഹാരം ലഭിക്കും എനിക്ക് a 1 മുതൽ a m വരെയും b 0 മുതൽ b m വരെയും ഉള്ള ഒരു ഉപപ്രശ്നം ലഭിക്കും മറുവശത്ത് ഞാൻ a 0 ഉം a ഡ്രോപ്പ് b 0 ഉം സൂക്ഷിക്കുന്നുa 0 മുതൽ a m വരെ അവശേഷിക്കുന്നു പക്ഷേ b 1 മുതൽ b n വരെ അറിയാം a 0 b 0 എന്നിവ രണ്ടും ഉണ്ടാകാൻ കഴിയില്ലെന്ന് അറിയുന്ന എന്റെ സാധ്യമായ രണ്ട് ഉപപ്രശ്നങ്ങളാണിവ പക്ഷേ അവരിൽ ഒരാളെ ഞാൻ അവിടെ അനുവദിക്കണം അല്ലാത്തപക്ഷം ഞാൻ എങ്ങനെ സബ് ഒപ്റ്റിമൈസ് പരിഹാരം ഉണ്ടാക്കി അവയിലൊന്ന് ഉപേക്ഷിക്കുന്നത് ഇത് ഒരു ജോലി ഷെഡ്യൂൾ കേസിലെ പോലെയാണ് കാരണം നിങ്ങൾ പറയുന്നു ഈ ജോലിയിൽ മറ്റെന്തെങ്കിലും ഇല്ലെങ്കിൽ a 0 ഉണ്ടെങ്കിൽ ബി 0 ഇല്ല ബി 0 ഉണ്ട് എ 0 ഇല്ല എന്നാൽ അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതിനാൽ ഞാൻ ഈ രണ്ട് പ്രശ്നങ്ങളും തത്ത്വത്തിൽ പരിഹരിക്കുകയും അവ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഇൻഡക്റ്റീവ് ഘടന ഒന്നുകിൽ ഞാൻ ഉൾപ്പെടുന്ന ആദ്യത്തെ അക്ഷരവുമായി പൊരുത്തപ്പെടുന്നു ഇത് എന്റെ സീക്വൻസുകളും ശേഷിക്കുന്ന ഉപപ്രശ്നവും പരിഹരിക്കുന്നു അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരം രണ്ട് സബ്പ്രൊബ്ലെമുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നില്ല ഒന്ന് ഓരോ അക്ഷരങ്ങളും കാലാനുസൃതമായി മുന്നോട്ട് വച്ചുകൊണ്ട് ഞാൻ പരമാവധി എടുക്കുന്നു പതിവുപോലെ a i b j എന്നിവയിൽ ആരംഭിക്കുന്ന പ്രശ്നത്തിന്റെ LCS നായി LCS i കോമ j അനുവദിക്കുക നമ്മൾ പറയുന്നതുപോലെ a i തുല്യമായ b j ആണെങ്കിൽ i j യുടെ LCS i പ്ലസ് 1 j പ്ലസ് 1 ന്റെ 1 പ്ലസ് LCS ആണെങ്കിൽ ഇത് പറയുന്നു b j ന് തുല്യമായ a i ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിക്കും എന്നിട്ട് ബാക്കി ഇൻപുട്ടിനൊപ്പം തുടരുക അത് ഇല്ലെങ്കിൽ ഞാൻ അവയിലൊന്ന് ഉപേക്ഷിക്കണം അതിനാൽ ഒന്നുകിൽ ഞാൻ എൽസിഎസ് ഐ ജെ പ്ലസ് 1 നായി എൽസിഎസ് ഐ പ്ലസ് 1 കോമ ജെ നോക്കും ഞാൻ രണ്ടും നോക്കും എന്നിട്ട് ഇവ രണ്ടിന്റെയും പരമാവധി എടുക്കും മറ്റൊന്നും ഇല്ല കാരണം നിലവിലുള്ളത് പൊരുത്തപ്പെടുന്നില്ല ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് പ്രശ്നം പോലെ വാക്ക് അവസാനിച്ചുവെന്ന് സൂചിപ്പിക്കുന്നതിന് പദത്തിന് അപ്പുറത്തേക്ക് ആ സ്ഥാനംനമ്മൾ വിപുലീകരിക്കും അതിനാൽ നമ്മൾ 0 മുതൽ m പ്ലസ് 1 വരെയും 0 മുതൽ n പ്ലസ് 1 വരെയും പോകുമ്പോൾ നമുക്ക് കുറഞ്ഞത് m പ്ലസ് 1 അല്ലെങ്കിൽ n പ്ലസ് 1 ഉള്ളപ്പോൾ എൽസിഎസ് പ്രശ്നം 0 നൽകും കാരണം അവ ഒരു സാധാരണ തുടർച്ചയായിരിക്കില്ല വാക്കുകൾ ശൂന്യമാകും LCS ൽ സബ്പ്രൊബ്ലെo ഡിപൻഡൻസി LCW അപേക്ഷിച്ച് അല്പം കൂടുതൽ സങ്കീർണ്ണമായ ഒന്നാണ് i j i plus 1 j plus 1 നെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേഇപ്പോൾ നമ്മൾ ഡിപൻഡൻസി i പ്ലസ് 1 j i j പ്ലസ് 1 എന്നിവയാണ് അതിനാൽ നമുക്ക് വലതുവശത്തും താഴ്ന്നതിൽ നിന്നും ഒരു ഡിപൻഡൻസി വരുന്നു ഈ മൂല്യങ്ങളെല്ലാം ഇവിടെ 0 ആയിരിക്കുമെന്ന് കണ്ടതിനാൽ നമുക്ക് മൂന്ന് വഴികളുണ്ട് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്ന ആദ്യത്തെ നിസ്സാരമല്ലാത്ത മൂല്യമാണിത് കാരണം അയൽക്കാർ കാണുന്നതെല്ലാം മറ്റൊരിടത്തും ഇല്ല ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ താഴെയുള്ള അയൽക്കാർ ഇവിടെ നോക്കുന്നില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ LCS m കോമാ n 5 കോമ 5 മൂല്യം കണക്കുകൂട്ടാൻ ലഭ്യമാണ് കാരണം അതിനു ചുറ്റുമുള്ള എല്ലാം ആശ്രിത സ്ക്വയറുകളെല്ലാം ജനസംഖ്യയുള്ളതാണ് എനിക്ക് അത് ചെയ്യാൻ കഴിയും തുടർന്ന് എനിക്ക് വീണ്ടും വരിവരിയായി ചെയ്യാൻ കഴിയും എനിക്ക് ഇത് ലഭിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എനിക്ക് മൂന്ന് മൂല്യങ്ങളും ഉണ്ടാകും ഞാൻ ഇത് ചെയ്തുകഴിഞ്ഞാൽ എനിക്ക് പോകാം അല്ലെങ്കിൽ എനിക്ക് ഇടത്തേക്ക് പോകാം എനിക്ക് ഇത് ചെയ്യാൻ കഴിയും അങ്ങനെ എനിക്ക് ഡയഗണലായി ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ഇത് നിര നിര ആയി ചെയ്യാം നമ്മൾ ഇവിടെ അടിസ്ഥാന കേസ് ഉപയോഗിച്ച് ആരംഭിക്കുന്നു അവിടെ 0 ലെ അതിർത്തിയിലുള്ള എൽസിഎസ് കാരണം നിങ്ങൾക്ക് ഒരു ശൂന്യമായ വാക്ക് ഉപയോഗിച്ച് ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ച ഉണ്ടാകാൻ കഴിയില്ല അതിനുശേഷം നമ്മൾ ആദ്യ നിര പൂരിപ്പിക്കുന്നു ഇവിടെ നമുക്ക് 1 ലഭിക്കും കാരണം രണ്ട് പൊരുത്തപ്പെടുമ്പോൾ നമുക്ക് 1 പ്ലസ് cso ഐ പ്ലസ് 1 ജെ പ്ലസ് 1 ഉണ്ട് ഇപ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ട് ഇത് ഇപ്പോൾ c യുമായി പൊരുത്തപ്പെടുന്നില്ല അതിനാൽ അവ പൊരുത്തപ്പെടുന്നില്ലെന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ടിന്റെയും പരമാവധി എടുക്കാൻ ഞാൻ കരുതുന്നു ഇത് ഈ 2 ന്റെ പരമാവധി ആണ് എനിക്ക് 1 ലേക്ക് ലഭിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ 2 ന്റെ പരമാവധി എടുക്കുന്നതുമുതൽ എനിക്ക് 1 ലേക്ക് ഈ 2 ന്റെ പരമാവധി എനിക്ക് 1 ലേക്ക് ലഭിക്കുന്നു അതിനാൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് പ്രശ്നം നിലവിലെ ലെറ്റ് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത് പറയുന്നു അപ്പോൾ എനിക്ക് 0 ലഭിക്കുന്നു ഇവിടെ ഇല്ല കാരണം ഈ സെറ്റ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു അതിനാൽ ഈ ഉചിതമായ ഒരെണ്ണം നേടുക മുമ്പത്തെ നിരയ്ക്കൊപ്പം ഇത് നേടാനുള്ള ഒരു പ്രോപ്പർട്ടി കാരണം ഒന്നും ഒരു r അല്ല ഇപ്പോൾ ചിലർക്ക് ഒരു കൂട്ടിച്ചേർക്കലുകൾ ലഭിക്കുന്നു ഞാൻ സി സി എന്നിവയിൽ എത്തുമ്പോൾ അത് 1 പ്ലസ് ഐ പ്ലസ് 1 ജെ പ്ലസ് 1 ആണ് അതിനാൽ നമുക്ക് അത് 2 ലഭിക്കുന്നു അതുപോലെ അടുത്ത നിരയിലേക്ക് പോകുമ്പോൾ ഇ ഇ എന്നിവയിലെത്തുമ്പോൾ 1 പ്ലസ് ഐ പ്ലസ് 1 ജെ പ്ലസ് 1 ആണ് അതിനാൽ എനിക്ക് 3 ലഭിക്കുന്നു ഒടുവിൽ ഈ എസ് എസ് എന്നിവയിൽ എത്തുമ്പോൾ എനിക്ക് ഇത് 4 ലഭിക്കുന്നു ഇപ്പോൾ ഈ 4 പ്രചരിപ്പിക്കുന്നു കാരണം ഇവിടെ ഞാൻ ഈ 2 ന്റെ പരമാവധി എടുക്കുന്നു ഈ 2 ന്റെ 4 മാക്സ് എനിക്ക് ലഭിക്കുന്നു എനിക്ക് 4 ലഭിക്കുന്നു അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ 0 കോമ 0 ന്റെ എൽസിഎസ് എന്റെ ഉത്തരമാണ് എൽസിഡബ്ല്യുവിൽ ഓർക്കുക മുഴുവൻ ഗ്രിഡിലും ചുറ്റും നോക്കുക കണ്ടെത്താൻ നമ്മൾ പരമാവധി എൽസിഎസിലായിരുന്നു അത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് 0 കോമ 0 ലഭിക്കുന്ന മൂല്യം നിങ്ങൾ തിരയുന്ന ഉത്തരത്തിനൊപ്പം പ്രവർത്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പാത കണ്ടെത്തുന്നതിന് മുമ്പുള്ളതുപോലെ എന്തുകൊണ്ടാണ് ഓരോ മൂല്യവും നിറച്ചത് എന്തുകൊണ്ടാണ് ഇത് പൂരിപ്പിച്ചത് കാരണം ഇത് 1 പ്ലസ് ഐ പ്ലസ് 1 ജെ പ്ലസ് 1 അല്ലെങ്കിൽ അത് പൂരിപ്പിക്കാൻ പോകുന്നു കാരണം മറ്റ് രണ്ട് നെറ്റ്വർക്കുകളിൽ പരമാവധി അങ്ങനെയാണെങ്കിൽ ഏതായിരുന്നു പൊരുത്തം അതിനാൽ ഈ 4 വന്നത് വളരെ വ്യക്തമായിരുന്നു കാരണം ഇത് ഒരു മാക്സ് ആയിരുന്നു കാരണം എസ് b യ്ക്ക് തുല്യമല്ല ഇത് ചുവടെ നിന്ന് വന്നു ഈ 4 ഉം S ന് താഴെ നിന്ന് വന്നത് S ന് തുല്യമാണ് ഇത് ഇവിടെ നിന്നും മറ്റും വന്നു അതിനാൽ നിങ്ങൾക്ക് ഈ മൂല്യം കണ്ടെത്താനും നിങ്ങൾക്ക് ഈ ഡയഗണൽ ഉള്ള എല്ലായിടത്തും അത് കണ്ടെത്താനും കഴിയും കാരണം മൂല്യം പൊരുത്തപ്പെടുന്നു മൂല്യം 4 ആണ് കൃത്യമായി നാല് ഡയഗണൽ ഘട്ടങ്ങളുണ്ട് ഇത് ഒന്ന് ഇത് ഒന്ന് ഇത് ഒന്ന് തുടർന്ന് ഏറ്റവും താഴെയുള്ള ഒന്ന് ഏറ്റവും ദൈർഘ്യമേറിയ തുടർന്നുള്ള നാല് പൊരുത്തങ്ങൾ ആണ് ഇവ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കഴിയും ഇത് സീക്വൻസ് വിഭാഗമായി മാറുന്നു നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉത്തരം സംഖ്യാപരമായി കണക്കുകൂട്ടാൻ കഴിയും നിങ്ങൾക്ക് തിരികെ പോയി ആ കണക്കുകൂട്ടൽ വീണ്ടും എടുത്ത് സാക്ഷിയെ കണ്ടെത്താനാകും അതിനെ വിളിക്കുന്നു യഥാർത്ഥത്തിൽ ഏത് പദമാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് എന്നത് അനുമതി നൽകേണ്ടതുണ്ട് എൽസിഎസിനായുള്ള കോഡ് അൽപം ലളിതമാണ് അതിനാൽ എൽസിഡബ്ല്യുവിന് കാരണം ഈ പരമാവധി മൂല്യത്തെക്കുറിച്ചും വൈവിധ്യമാർന്ന സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ സൂക്ഷിക്കേണ്ടതില്ല കാരണം മൂല്യം 0 സിയിൽ മാത്രമേ നമ്മൾ കണ്ടെത്താവൂ വരികൾ ഈ വഴിക്ക് പോകുകയും നിരകൾ ഈ വഴിക്ക് പോകുകയും ചെയ്യുന്നതായി വ്യക്തമാകുന്നതിന് മുമ്പ് r c എന്നിവ ഉപയോഗിക്കുന്നു നിര 0 മുതൽ n പ്ലസ് 1 വരെയും വരികൾ 0 മുതൽ m പ്ലസ് 1 വരെയും പോകുന്നു അതിർത്തി 0 ആയിരിക്കണമെന്ന് നമ്മൾ സമാരംഭിക്കുന്നു തുടർന്ന് നമ്മൾ നിരയുടെ വരിയിൽ നിന്ന് നിരയിൽ നിന്ന് താഴേയ്ക്ക് മുകളിലേക്ക് നിര ചെയ്യുന്നു രണ്ടും തുല്യമാണെങ്കിൽ നിങ്ങൾ 1 പ്ലസ് ചുവടെ ചേർക്കുന്നു രണ്ടും തുല്യമല്ലെങ്കിൽ ഞാൻ ഈ രണ്ട് മൂല്യങ്ങളിൽ നിന്നും പരമാവധി എടുക്കുന്നു ഒടുവിൽ ഇത് ഇവിടെ പൂരിപ്പിക്കുമ്പോൾ ഞാൻ മൂല്യം എഴുതി അത് 0 കോമ 0 ആണ് ഇത് എൽസിഡബ്ല്യുവിന് സമാനമാണ് നമ്മൾ അടിസ്ഥാനപരമായി m n സൈസ് ടേബിളിൽ പൂരിപ്പിക്കുന്നു ടേബിളിലെ ഓരോ എൻട്രിയും കണക്കുകൂട്ടാൻ എളുപ്പമാണ് മൂന്ന് അയൽക്കാരെ നോക്കുമ്പോൾ സ്ഥിരമായിട്ടുള്ളത് മാത്രമേ എടുക്കൂ അതിനാൽ മൊത്തത്തിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഓർഡർ m n അൽഗോരിതം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആവർത്തനച്ചെലവിൽ മെമ്മോയിസേഷനും ഉപയോഗിക്കാം